നമസ്തേ കഴിഞ്ഞ കുറച്ചു ഭാഗങ്ങളിലായി നമ്മൾ സി വി പി വിശകലനം ബി ഇ പി വിശകലനം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള തീരുമാനങ്ങളെടുക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇവ ഉപയോഗിക്കുന്നത് ബിഇപിയുടെ കണക്കുകൂട്ടൽ പി വി അനുപാതം കണക്കാക്കൽ സുരക്ഷയുടെ മാർജിൻ കണക്കാക്കൽ ഒരു ഉൽപ്പന്നത്തിന് മാത്രമല്ല വിവിധ തരം ഉൽപ്പന്ന മിശ്രണങ്ങൾക്ക് ഏതു ഉൽപ്പന്ന മിശ്രണം തിരഞ്ഞെടുക്കുന്നതാവും കൂടുതൽ അനുയോജ്യം തുടങ്ങിയവ ഉൾപ്പെടുന്ന കുറച്ചു കേസുകൾ നമ്മൾ ഇതിനകം ചെയ്തിട്ടുണ്ട് ജീവനക്കാർക്ക് ശമ്പളവും ഉൽപ്പാദനക്ഷമതയും ഉറപ്പുവരുത്തുന്നതിന് ഇതാണ് ഉചിതമെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ കേസുകൾ തുടരും നമ്മൾ ഉടൻ തന്നെ നാലാമത്തെ കേസിലേക്ക് പോകും ഈ കേസുകളുടെ പകർപ്പ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി അത് നിങ്ങളുടെ കൈവശം വയ്ക്കുക നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഇപ്പോൾ പകർപ്പ് എടുത്ത് എന്നോടൊപ്പം കേസ് പരിഹരിക്കാൻ ശ്രമിക്കുക ഇതുവഴി നിങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താനുള്ള അനുഭവം ശരിക്കും ലഭിക്കും ഇപ്പോൾ ചോദ്യം 4 കേസ് 4 ആയുർ ഫാർമ 3 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു കൂടാതെ വിൽപ്പന സാമഗ്രികൾ തൊഴിലാളികളുടെ ചെലവ് വേരിയബിൾ ഓവർഹെഡുകൾ നിശ്ചിത ഓവർഹെഡുകൾ എന്നിങ്ങനെയുള്ള 3 ഉൽപ്പന്ന നിരകൾക്കും ചെലവ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു കമ്പനി അതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് ഉൽപ്പന്നങ്ങളുടെ ഒരു നിര അടച്ച് മറ്റ് രണ്ട് നിരകൾക്കായി സാമഗ്രികൾ ഉപയോഗിക്കാൻ മാനേജ്മെന്റ് പദ്ധതിയിടുന്നു ലാഭക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി നിരകളിലൊന്ന് അടയ്ക്കുന്നതിന് ദയവായി ഒരു വിശദമായ വിവരണം തയാറാക്കുക ലളിതമായ വളരെ ചെറിയ ഒരു കേസ് നോക്കാം ഇതുമായി നിങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും ഒരുപക്ഷേ മാനേജ്മെന്റ് ഉൽപ്പന്ന നിരകളിലൊന്ന് താൽകാലികമായി അടക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ശാശ്വതമായ അടച്ചുപൂട്ടലല്ല ലാഭക്ഷമത മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ഉൽപ്പന്നങ്ങളിലൊന്ന് താൽക്കാലികമായി അടച്ചുപൂട്ടുന്ന സാഹചര്യമാണിത് ഇപ്പോൾ എങ്ങനെ പോകും ആദ്യത്തേത് തീർച്ചയായും അടിസ്ഥാന കണക്കുകൂട്ടൽ വിൽപ്പനയും എല്ലാ ചെലവ് വിവരങ്ങളും എടുത്ത് ഇന്നത്തെ പോലെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും ലാഭം കണക്കാക്കാൻ ശ്രമിക്കുക നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഏത് ഉൽപ്പന്ന നിര അടയ്ക്കാമെന്ന് തീരുമാനിക്കുക അതിനാൽ ഇതാണ് ഡാറ്റ XYZ 3 ഉൽപ്പന്ന നിരകൾ മൊത്തം എന്നിവ നൽകുന്ന മൂന്ന് ഷീറ്റുകൾ ഉണ്ടാക്കുക കൂടാതെ ആദ്യത്തേത് നമ്മൾ തീരുമാനിക്കണം നമുക്ക് ലാഭക്ഷമത കണക്കാക്കാം ഇപ്പോൾ തീരുമാനമെടുക്കുന്നതിന് പി വി അനുപാത സംഭാവനയും മറ്റും പോലുള്ള കുറച്ച് അടിസ്ഥാന കാര്യങ്ങളും നമുക്ക് കണക്കാക്കാം ചെലവ് വേരിയബിളായി വിഭജിച്ച് പ്രത്യേകം പരിഹരിക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കും അതിനാൽ സംഭാവന അറിയുകയും സംഭാവനയെ അടിസ്ഥാനമാക്കി നമ്മൾ പി വി അനുപാതം കണക്കാക്കുകയും ചെയ്യും ഇപ്പോൾ മൂന്ന് നിരകൾ ഉണ്ടാക്കുക നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കി ലാഭക്ഷമത കണക്കാക്കുന്നത് ഓരോന്നായി കാണിക്കാൻ ആരംഭിക്കുക അതിനാൽ നേരിട്ടുള്ള ചെലവുകൾ വേരിയബിൾ ചെലവുകളാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഡിഎം ഡിഎൽ അതായത് നേരിട്ടുള്ള സാമഗ്രികൾ നേരിട്ടുള്ള തൊഴിലാളികൾ വേരിയബിൾ ഓവർഹെഡുകൾ എന്നിവ വേരിയബിൾ കോസ്റ്റുകളായി കണക്കാക്കുന്നു അതിനാൽ മൂന്ന് ഉൽപ്പന്നങ്ങൾക്കും ദയവായി ആദ്യം വേരിയബിൾ വില ശ്രദ്ധിക്കുക തുടർന്ന് വേരിയബിൾ ചെലവുകളുടെ ആകെ തുക എടുത്ത് സംഭാവന കണക്കാക്കാൻ ശ്രമിക്കുക ദയവായി അത് എന്നോടൊപ്പം ചെയ്യുക അതിനാൽ ഉൽപ്പന്നം X ന് വേരിയബിൾ ചെലവ് 140 200000 ത്തിൽ നിന്ന് 140 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 60000 സംഭാവന ലഭിക്കും എന്തുകൊണ്ടാവും മൊത്തം 190 ഉം സംഭാവന 210 ഉം X ന്റെ സംഭാവന 75 മാകുന്നത് ഇപ്പോൾ ഈ 3 ൽ നിന്ന് 6 ചെലവുകൾ കൂടി പരീക്ഷിക്കാൻ ശ്രമിക്കുക നിശ്ചിത ചെലവുകൾ കുറയ്ക്കുകയും മൂന്ന് ഉൽപ്പന്നങ്ങളുടെയും ലാഭക്ഷമത കണക്കാക്കുകയും ചെയ്യുക അതിനാൽ X Y Z എന്ന 3 ഉൽപ്പന്നങ്ങൾക്ക് ഇത് 25 ഉം 160 ഉം 50 ഉം ആണ് ഇപ്പോൾ ഉൽപ്പന്ന നിരകളിലൊന്ന് താൽക്കാലികമായി അടയ്ക്കണമെങ്കിൽ ഏത് ഉൽപ്പന്ന നിര അടയ്ക്കണം എന്നതാണ് ചോദ്യം അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശം എന്താണ് X ന് ഏറ്റവും കുറഞ്ഞ ലാഭക്ഷമതയുള്ളതിനാൽ X ന്റെ അടച്ചുപൂട്ടലിലേക്ക് പോകണോ X ന്റെ വിൽപ്പനയും ഏറ്റവും കുറവാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ X അടക്കുന്നതാണ് നല്ലത് വിൽപ്പനയുടെ അടിസ്ഥാനത്തിലോ ലാഭത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്ക് പി വി അനുപാതം കണക്കാക്കാൻ ശ്രമിക്കാം അതിനാൽ നിങ്ങൾക്ക് സൂത്രവാക്യം അറിയാം വിൽപ്പനയിലെ സംഭാവന നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ എഴുതുക ഇത് 0 5 മുതൽ 5 0 3 എന്നിങ്ങനെയാണ് നിങ്ങൾ സമ്പൂർണ്ണ സംഭാവന പ്രകാരം പോകുകയാണെങ്കിൽ X ന് 60 Y ക്ക് 10 ഉം Z ന് 75 ഉം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ X Z എന്നിവയുടെ PV അനുപാതം ഒരുപോലെയാണെങ്കിൽ ആപേക്ഷിക പദങ്ങളായി നോക്കിയാൽ Y യ്ക്ക് മികച്ച ലാഭക്ഷമതയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മൾക്ക് X അടക്കാമോ കാരണം എന്തായാലും PV അനുപാതം X Z എന്നിവയ്ക്കോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും കണക്കുകൂട്ടലിനോ സമാനമാണ് ബ്രേക്ക്ഈവൻ പോയിന്റ് കണക്കാക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് കൂടി ഞാൻ കരുതുന്നു എന്താണ് സൂത്രവാക്യം ബ്രേക്ക്ഈവൻ പോയിന്റിൽ നമ്മൾ നിശ്ചിത ചെലവ് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നിശ്ചിത ചെലവുകൾ അറിയാം അതിനാൽ ബി ഇ പി യുടെ സൂത്രവാക്യം എന്തുമായി ഹരിച്ചാകും നിശ്ചിത ചെലവുകൾ എടുക്കുക 2 സൂത്രവാക്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒന്ന് യൂണിറ്റ് സംഭാവനയുടെ അടിസ്ഥാനത്തിലുള്ള എഫ്സി യാണ് എന്നാൽ ഒരിടത്തും യൂണിറ്റുകളുടെ എണ്ണം നൽകിയിട്ടില്ല ആ സൂത്രവാക്യം ഉപയോഗിക്കാൻ കഴിയില്ല കാരണം യൂണിറ്റുകളുടെ എണ്ണം അറിയില്ല അല്ലെങ്കിൽ ഇത് ഒരു ഏകീകൃത ഉൽപ്പാദനമല്ലായിരിക്കാം പക്ഷേ പി വി അനുപാതം നമുക്കറിയാം അതിനാൽ പി വി അനുപാതത്തിൽ എഫ്സി സംഭാവന ചെയ്യുക എന്നതാണ് മറ്റൊരു സൂത്രവാക്യം അതിനാൽ ആ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ബി ഇ പി കണക്കാക്കാൻ ശ്രമിക്കാം അതിനാൽ ബ്രേക്ക്ഈവൻ പോയിന്റ് 116 ഉം 95 ഉം 833 ഉം ആണ് അതിനാൽ ബ്രേക്ക്ഈവൻ പോയിന്റിനെ അടിസ്ഥാനമാക്കി ഏത് ഉൽപ്പന്നമാണ് മോശമായത് ഞാൻ കരുതുന്നത് വീണ്ടും X ആണെന്നാണ് കാരണം ഉയർന്ന പി ബി ഇ പി X ന് ഉചിതമല്ല X ന് ഉയർന്ന ബി ഇ പി ഉണ്ട് അതിനാൽ അടച്ചുപൂട്ടാനുള്ള ശരിയായ സ്ഥാനാർത്ഥിയായി X കാണപ്പെടുന്നു നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ നമുക്ക് പ്രശ്നത്തിലേക്ക് മടങ്ങാം അത് ശ്രദ്ധാപൂർവ്വം വായിക്കാം ഇത് വളരെ ചെറിയ കേസാണ് ഇപ്പോൾ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്നത് അസംസ്കൃത വസ്തുക്കളാണ് മാനേജ്മെന്റ് നിരകളിലൊന്ന് അടച്ചുപൂട്ടാൻ ആഗ്രഹിക്കുന്നു മറ്റ് രണ്ടു നിരകളിൽ സാമഗ്രികൾ ഉപയോഗിക്കുന്നതിൽ അടച്ചുപൂട്ടലിന്റെ ലക്ഷ്യമെന്താണ് അതായത് ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുവിന്റെ ലഭ്യത കുറവാണ് അസംസ്കൃത വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ലാഭം കുറഞ്ഞ ഉൽപ്പന്നത്തിന് ഇത് ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ ലാഭകരമായ ഉൽപ്പന്നത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഇവയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഇപ്പോൾ എന്താണ് കാണുന്നത് തീരുമാനമെടുക്കുന്നതിനുള്ള മാനദണ്ഡം എന്തായിരിക്കും മൂന്ന് ഉൽപ്പന്നങ്ങളുടെ സ്ഥാനനിർണയത്തെക്കുറിച്ച് ഓരോ യൂണിറ്റിന്റെയും സംഭാവനയെ ആശ്രയിച്ചിരിക്കുന്ന നമ്മളുടെ സ്ഥാനനിർണയം നിരവധി തവണ കണക്കുകൂട്ടലുകളിലേക്ക് പോകും അത് ഇവിടെ ചെയ്യാൻ കഴിയില്ല കാരണം നമുക്ക് എണ്ണം അറിയില്ല അതിനുപകരം ചിലപ്പോൾ നമുക്ക് പി വി അനുപാതമോ ലാഭക്ഷമതയോ ബിഇപിയോ അടിസ്ഥാനമാക്കി സ്ഥാനനിർണയം ചെയ്യാം എന്നാൽ ഈ സാഹചര്യത്തിൽ ഇതൊന്നും പ്രയോജനകരമല്ല കാരണം മുഴുവൻ ശ്രദ്ധയും അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗത്തിലാണ് അതിനാൽ നമ്മുടെ അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമോ ലാഭകരമോ ആക്കുന്നതിനുള്ള ഉൽപ്പന്നം നാം കണ്ടെത്തണം അതായത് നിശ്ചിത ചെലവ് മാറാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതിനാൽ തീരുമാനമെടുക്കുന്നതിന് അത് പരിഗണിക്കപ്പെടേണ്ടതില്ല അതിനാൽ നമ്മളുടെ തീരുമാനം സംഭാവനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നാൽ 60 210 75 എന്നിവയുടെ സമ്പൂർണ്ണ സംഭാവനയും വലിയ പ്രയോജനമല്ല കാരണം അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് സംഭാവന സൃഷ്ടിക്കുന്നത് കൂടാതെ അസംസ്കൃത വസ്തുക്കൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം അതിനായാണ് അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തിൽ ഓരോ രൂപയുടെയും സംഭാവന നമ്മൾ കണക്കാക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തിന് ഈ സംഭാവന സൂത്രവാക്യം നമുക്ക് കണക്കാക്കാം അപ്പോൾ ബി 5 ലഭിക്കുമ്പോൾ ഇത് ബി 9 ആയിരിക്കും മനസ്സിലായോ അതിനാൽ നമുക്ക് ഇത് X നായി കണക്കാക്കാം അത് 0 6 ആണ് എന്തുകൊണ്ട് 1 4 ഉം Z വീണ്ടും 0 6 ഉം ആണ് നിങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു സ്ഥാനനിർണയത്തിനായി പോയാൽ നമ്മളുടെ സ്ഥാനം 2 ഉം 1 ഉം 2 ഉം ആയിരിക്കും കാരണം നേരിട്ട് ഉപയോഗിക്കുന്ന ഓരോ സാമഗ്രികൾക്കും X Y എന്നിവയ്ക്കും ഒരേ സംഭാവനയാണെന്ന് വീണ്ടും വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അവയുടെ സ്ഥാനം 2 ആയതും അത് കൂടുതൽ ആയതും അതിനാൽ Y വളരെ വ്യക്തമായിരിക്കുന്നു X നും Z നും ഇടയിൽ നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് കരുതുന്നത് X അടയ്ക്കുന്നതാണ് നല്ലത് കാരണം ലാഭം കുറവാണ് അതിനാൽ X നും Z നും ഇടയിൽ അടയ്ക്കാൻ പാടില്ലാത്ത ഏറ്റവും മികച്ച ഉൽപ്പന്നം Y ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നമ്മൾ X അടച്ചുപൂട്ടാൻ പോകുമോ അതിന് ലാഭം കുറവായതിനാൽ അത് തെറ്റിദ്ധരിപ്പിക്കും നമ്മുടെ പ്രധാന ലക്ഷ്യം അസംസ്കൃത വസ്തുക്കൾ പുറത്തിറക്കുകയും കൂടുതൽ ലാഭകരമായ ഉൽപ്പന്നത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ ലാഭകരമായ ഉൽപ്പന്നം Y ആണ് അതിനാൽ X Z എന്നിവയിൽ ഏത് ഉൽപ്പന്നമാണ് കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം Z കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതായത് Z അടയ്ക്കുന്നതിലൂടെ നമ്മൾക്ക് 125000 അസംസ്കൃത വസ്തുക്കൾ പുറത്തിറക്കാൻ കഴിയും അത് Y യിലേക്ക് മാറ്റുകയും കൂടുതൽ ലാഭകരമായി ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് Z അടയ്ക്കുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കാം അത് കൂടുതൽ ലാഭം നൽകുന്നുണ്ടോ അതെ എങ്കിൽ എത്ര കൂടുതൽ ഈ മൂന്ന് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുള്ള ആകെ ലാഭം 2 35000 ആണ് ഇപ്പോൾ നമ്മളുടെ ഉപദേശപ്രകാരം നമ്മൾ Y അടയ്ക്കാൻ ശ്രമിക്കുന്നു ക്ഷമിക്കണം Z അടയ്ക്കുക Z 1 25000 രൂപയുടെ അസംസ്കൃത വസ്തുക്കൾ പുറത്തിറക്കും അത് Y യ്ക്കായി ഉപയോഗിക്കും അതായത് അസംസ്കൃത വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തുക്കളുടെ കുറവ് Z ന് 125 ഉം Y യിൽ അസംസ്കൃത വസ്തുക്കളുടെ വർദ്ധനവ് 125 1 25 000 ഉം ആണ് ഇപ്പോൾ എത്ര അധിക സംഭാവന ലഭിക്കും ഓരോ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തിനും Z എന്ന ഉൽപ്പന്നത്തിന്റെ സംഭാവന 0 6 ആണ് എന്നാൽ Y യ്ക്ക് ഇത് 1 4 ആണെന്ന സൂത്രവാക്യം നമുക്കറിയാം അതായത് അതേ 1 25 000 Z ൽ 75 ന്റെ സംഭാവന സൃഷ്ടിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ 1 4 മടങ്ങ് വരും അതിനാൽ Z ൽ നിന്നുള്ള സംഭാവന 75 ആയിരിക്കും അതേസമയം Y ൽ നിന്ന് 75 1 25 000 എങ്ങനെ 0 6 ആയി ലഭിക്കും എന്നാൽ നിങ്ങൾ അതേ അസംസ്കൃത വസ്തു Y ലേക്ക് മാറ്റുകയാണെങ്കിൽ അധിക അസംസ്കൃത വസ്തുക്കളുടെ സംഭാവന 125 ആയി ലഭിക്കും 4 അതായത് അധിക സംഭാവനയുടെ 1 75 000 സൃഷ്ടിക്കപ്പെടുന്നു എന്നാൽ 75 ന്റെ സംഭാവന നഷ്ടമായി അതിനാൽ 100000 വർദ്ധിത സംഭാവനയുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ മറ്റൊരു കണക്കുകൂട്ടലിന്റെ ആവശ്യമില്ല അതിനാൽ സംഭവിക്കുന്നത് 1 പോയിന്റ് ഇവിടെ പോകും നമ്മൾ കണക്കുകൂട്ടലും പൂർണ്ണമായി ചെയ്യാൻ ശ്രമിക്കും നമ്മൾ ഇവിടെ ചെയ്തതും ശരിയാണ് പക്ഷേ ഇത് ഒരു കുറുക്കുവഴിയാണ് സംഭാവന 100000 വർദ്ധിക്കുമെന്ന് ഇത് കാണിക്കുന്നു സ്ഥിരമായതിനാൽ ചെലവിൽ മാറ്റമില്ല ലാഭം 100000 വർദ്ധിക്കും അതിനാൽ ലാഭം 235 ൽ നിന്ന് 335 ആയി ഉയരും ഞാൻ മുഴുവൻ കണക്കുകൂട്ടലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ദയവായി ഇത് എന്നോടൊപ്പം ചെയ്യുക നമുക്ക് ഒരിക്കൽ കൂടി ലാഭക്ഷമത പ്രസ്താവന നടത്താം X Z Y എന്നിവയുടെ പുതിയ വിൽപ്പന കണക്കാക്കുക Y പുതിയ വിൽപ്പനയെക്കുറിച്ച് ഒരു ചോദ്യവുമില്ല കാരണം ഇപ്പോൾ Y ക്ഷമിക്കണം Z പൂർണ്ണമായി അടച്ചിരിക്കുന്നു പുതിയ വിൽപ്പന എത്രയായിരിക്കും പുതിയ വിൽപ്പന 733333 ആയിരിക്കും നിങ്ങൾക്കത് എങ്ങനെ കണക്കാക്കാം കാരണം നിങ്ങൾക്ക് നേരത്തെ 275 അനുവദിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് Y യ്ക്ക് കുറച്ച് അധിക അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നു അവയ്ക്ക് മതിയായ ശേഷിയുണ്ടോ അതിനാൽ ഇത് Y യുടെ 1 833 മടങ്ങ് കൂടുതലാണ് ഇത് സാധ്യമാണ് അതായത് 275 മുതൽ 150 വരെയുള്ള അനുപാതം നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കത് വ്യക്തമല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കും Y യുടെ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം 150000 മാത്രമായിരുന്നു ഇപ്പോൾ അവർക്ക് 125 ന്റെ അധിക അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നു അതായത് പുതിയ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗം 275 ആയിരിക്കും 275 ന് 150 ആയിരിക്കും ഉൽപ്പാദനത്തിന്റെ പുതിയ തലം അസംസ്കൃത വസ്തു ഒരു വേരിയബിൾ ചെലവ് ആണെന്നും അതിൽ ഉണ്ടാകുന്ന വർദ്ധനവ് മറ്റു വേരിയബിൾ ചെലവുകളിലും വിൽപ്പനയിലും വർദ്ധനവ് നൽകുമെന്നും നിങ്ങൾക്കറിയാം അതിനാലാണ് ഇത് Y യുടെ ശേഷിയുടെ 1 83333 മടങ്ങ് വർദ്ധനവുണ്ടാകുന്നത് ഇനി ഞാൻ തിരികെ പോകാം തിരികെ Y യിലെ ഓരോ ചെലവും 1 83 മടങ്ങ് വർദ്ധിക്കും അസംസ്കൃത പദാർത്ഥം 150 അധികം 125 ആണെന്ന് നമ്മൾക്ക് ഇതിനകം തന്നെ അറിയാമായിരുന്നുവെന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഇപ്പോഴും അത് 275 നേരിട്ടുള്ള തൊഴിലായി മാറുകയും വേരിയബിൾ ഓവർഹെഡുകൾ വീണ്ടും കണക്കാക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ പുതിയ വിസി കണക്കാക്കുക പുതിയ വേരിയബിൾ ചെലവ് ഇതിന്റെ ആകെത്തുകയായ 348333 ആണ് ഇപ്പോൾ 7333 നിന്നും 348333 കുറയ്ക്കുന്നതായിരിക്കും പുതിയ സംഭാവന അത് 3 85000 ആണ് നിങ്ങൾക്ക് ഇത് 210 ആയിരുന്ന പഴയ സംഭാവനയുമായി താരതമ്യം ചെയ്യാം അതിനാൽ നമ്മൾ സംഭാവന ഗണ്യമായി വർദ്ധിപ്പിച്ചു ക്ഷമിക്കണം നമ്മൾ അത് 210 ൽ നിന്ന് 385 ആയി വർദ്ധിപ്പിച്ചു ഇനി നമുക്ക് X X ലേക്ക് പോകാം നേരത്തെ ആവർത്തിച്ച അതേ കണക്കുകളിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല Y യുടെ കാര്യമോ Y യ്ക്കും മാറ്റമുണ്ടാകില്ല ഒരർത്ഥത്തിൽ ഒരു മാറ്റവുമില്ല ഇപ്പോൾ അത് 0 ആയി മാറിയിരിക്കുന്നു നേരത്തെ Y യിൽ കുറച്ച് ഉത്പാദനം ഉണ്ടായിരുന്നു ഇപ്പോൾ Y യുടെ ഉത്പാദനം ക്ഷമിക്കണം Z ന്റെ ഉത്പാദനം 0 ആയി മാറുന്നു എന്നാൽ Z ന്റെ സ്ഥിരമായ ചിലവ് ഇല്ലാതാകില്ലെന്ന് ഓർമ്മിക്കുക കാരണം ഇത് ഒരു ശാശ്വതമായ അടച്ചുപൂട്ടൽ അല്ല Z ന്റെ താൽക്കാലിക അടച്ചുപൂട്ടൽ ആണ് അവരുടെ യന്ത്രസാമഗ്രികളോ യന്ത്രസാമഗ്രികളുടെ അറ്റകുറ്റപ്പണികളോ നമ്മൾ ഒഴിവാക്കില്ല അതിനാൽ പുതിയ ലാഭം കണക്കാക്കുന്നതിനുള്ള നിശ്ചിത ചെലവുകളുമായി നമ്മൾ മുന്നോട്ടു പോകും X ന്റെ പുതിയ ലാഭം Y യ്ക്ക് മാറ്റമുണ്ടാകില്ല ലാഭത്തിൽ ഗണ്യമായ വർദ്ധനവുണ്ട് നിങ്ങൾക്ക് ഇവിടെ അത് 160 ആയിരുന്നു എന്ന് കാണാം ഇപ്പോൾ Z ന് അത് 335 ആയി 25 ന്റെ നഷ്ടം ഉണ്ട് കാരണം അവിടെ സ്ഥിരമായ ചെലവുകൾ തുടരുന്നു എന്നാൽ വിൽപ്പനയും വേരിയബിൾ ചെലവും 0 ആയി മാറി അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആകെ എടുക്കാം ലാഭം ഇപ്പോൾ 335 ആയി മാറുന്നു നേരത്തെ ഇത് 235 ആയിരുന്നു ലാഭത്തിൽ 100000 വർദ്ധനവ് ഉണ്ടാകുമെന്ന് നമ്മൾ കണക്കുകൂട്ടൽ നടത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് തീർച്ചയായും പുനപരിശോധനയ്ക്കായി എല്ലാ ആകെ തുകകളും എടുക്കാം നിങ്ങൾ ആകെ എടുക്കുകയാണെങ്കിൽ പുതിയ സംഭാവന 445 നിശ്ചിത ചെലവാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ലാഭം 335 പുതിയ പി വി അനുപാതവും ബി ഇ പി യും എന്തായിരിക്കും പുതുക്കിയ പി വി അനുപാതവും ബി ഇ പി യും കണക്കാക്കുക പി വി അനുപാതം മാറുന്നത് വരെ അത് വീണ്ടും കണക്കാക്കാൻ കഴിയില്ല കാരണം X Y എന്നിവയ്ക്കുള്ള പി വി അനുപാതം തുടരും Z നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തി പക്ഷേ X ഉം Y ഉം വീണ്ടും പ്രവർത്തനത്തിന്റെ നില മാറ്റുന്നതായി നമുക്ക് കാണാം അത് പി വി അനുപാതത്തിൽ മാറ്റം വരുത്തുന്നില്ല അത് ബി ഇ പി യെയും മാറ്റുന്നില്ല ശരിയല്ലേ അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റും മാറാൻ പോകുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നാൽ Y യുടെ കാര്യക്ഷമതയുടെ വിനിയോഗം വർധിപ്പിച്ചു Z വെട്ടിക്കുറച്ചു ലാഭത്തിൽ 235 ൽ നിന്ന് 335 ആയി ഗണ്യമായ വർദ്ധനവ് നിങ്ങൾക്ക് കാണാം ഇതും ഒരു ഉൽപ്പന്ന മിശ്രണ പ്രശ്നമാണ് അവിടെ നമ്മൾ ഉൽപ്പന്ന മിശ്രണം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിപരമായ നിർദ്ദേശമുണ്ടോ കാരണം ഈ കേസ് അവസാനിച്ചത് ലാഭക്ഷമതയുടെ വർധനവിനായി ഒരു ഉൽപ്പന്ന നിരയുടെ അടച്ചുപൂട്ടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരിഹാരം ശരിയാണ് നമ്മളുടെ അഭിപ്രായത്തിൽ Z അടച്ചുപൂട്ടിയതും ലാഭക്ഷമത 335 പരിഷ്കരിച്ച ലാഭവുമാണ് ഉൽപ്പന്നം X അടച്ചുപൂട്ടാൻ നിങ്ങൾക്ക് ഒരു നിർദ്ദേശ കമ്പനി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഉൽപ്പന്നം X ഒരു അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തിന് 0 6 മാത്രമാണ് സംഭാവന ചെയ്യുന്നത് അതേസമയം Y കൂടുതൽ ലാഭകരമാണ് 1 അതിനാൽ നിങ്ങൾ ഈ 100000 അസംസ്കൃത വസ്തുക്കൾ പുറത്തിറക്കിയാൽ 0 8 ന്റെ മെച്ചപ്പെട്ട വിനിയോഗം ഉണ്ടാകും വാസ്തവത്തിൽ ഇത് ലാഭക്ഷമത 80000 വർദ്ധിപ്പിക്കും കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഇത് ആവശ്യപ്പെടുന്നില്ലെങ്കിലും X അടച്ച് ആ അസംസ്കൃത വസ്തുക്കളിൽ കൈമാറ്റം ചെയ്യുന്നത് ലാഭം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമിടാം തീർച്ചയായും Yക്ക് ആവശ്യത്തിന് ആവശ്യക്കാരുണ്ടോയെന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ Y യുടെ വിൽപനയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു അപ്പോൾ അതിന് ആവശ്യക്കാരും ഉണ്ടാകണം രണ്ടാമതായി കമ്പനി 2 ഉൽപന്നങ്ങൾ ഒരുമിച്ച് അടയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം കമ്പനികൾ ഒരു ഉൽപ്പന്നത്തെ മാത്രം ആശ്രയിക്കുന്നു ഇപ്പോൾ അവർക്ക് മൂന്ന് ഉൽപ്പന്നങ്ങളുണ്ട് Z ക്ലോസ് ചെയ്യാൻ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട് അവർ X അടച്ചാൽ അവ Y എന്ന ഒരു ഉൽപ്പന്നത്തെ മാത്രം ആശ്രയിക്കുന്നു അതിനാൽ കമ്പനിയുടെ അപകടസാധ്യത വർദ്ധിക്കുന്നത് തീർച്ചയായും ഗുണപരമായ പ്രശ്നങ്ങളാണ് Z അടച്ച് Y ലേക്ക് മാറ്റാൻ ഇത് മതിയാകും പക്ഷേ ആശങ്കയുണ്ട് കൂടാതെ മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ X അടച്ച് Y ലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ Z ശാശ്വതമായി അടയ്ക്കാനും സാധ്യതയുണ്ട് കാരണം അത് ചെലവ് 25000 ആയി കുറയ്ക്കും പക്ഷേ ദീർഘകാല ഉപഭോക്താക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കമ്പനി പരിശോധിക്കേണ്ടതുണ്ട് ആരാണ് നമ്മളിൽ നിന്ന് Z വാങ്ങുന്നത് അത് നമ്മളുടെ മൊത്തത്തിലുള്ള വിപണി മൂല്യം കുറയ്ക്കുമോ Z അടയ്ക്കാനുള്ള തീരുമാനത്തിൽ അപകട സാധ്യതയുണ്ടോ സ്ഥിരമായ അടുപ്പത്തിന്റെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ ഗുണപരമായ ഘടകങ്ങളെല്ലാം കമ്പനി പരിഗണിക്കേണ്ടതുണ്ട് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതുപോലെ ഹ്രസ്വകാല തീരുമാനങ്ങൾക്ക് മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ സി വി പി എന്ന സാങ്കേതികത പ്രാഥമികമായി ഉപയോഗപ്രദമാണ് എന്നിരുന്നാലും ചില എക്സ്ട്രാ മാർക്കറ്റ് റിസർച്ച് കമ്പനികൾ നടത്തിയ ഈ പഠനങ്ങളെ അടിസ്ഥാനമാക്കി ദീർഘകാല തീരുമാനത്തിന് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ ചില അധിക പഠനം നടത്തി ദീർഘകാല തീരുമാനത്തിൽ ഉള്ള ചില സൂചനകൾ അവർ നിങ്ങൾക്ക് നൽകിയേക്കാം അതിനാൽ മുമ്പത്തെ കേസുകളിൽ ഒന്നിൽ നമ്മൾ ഉൽപ്പന്ന മിശ്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ആയുർ ഫാർമയുടെ ഈ പ്രത്യേക കേസ് ഉൽപ്പന്ന മിശ്രണ കേസാണ് ഇവിടെ നമ്മൾ ഉൽപ്പന്ന മിശ്രണത്തെ മെച്ചപ്പെടുത്തുന്നു എന്നാൽ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഉൽപ്പാദന ഇനങ്ങളിൽ ഒന്നായ അസംസ്കൃതവസ്തുക്കൾ കുറഞ്ഞ അളവിലെ വിതരണം നടത്തുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും അസംസ്കൃത വസ്തുക്കളുടെ മികച്ച വിനിയോഗത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ അസംസ്കൃത വസ്തുക്കൾ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റ് ഘടകം എന്നു വിളിക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ചിലപ്പോൾ തൊഴിലാളികളുടെ കുറവും ഉള്ളതുപോലെ മറ്റ് പ്രധാന ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകും തൊഴിൽ സമയങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ ഒരു തൊഴിൽ മണിക്കൂറിലെ സംഭാവനയെ അടിസ്ഥാനമാക്കിയായിരിക്കും തീരുമാനമെടുക്കുന്നത് മൊത്തം തൊഴിൽ ചെലവ് കുറവാണെങ്കിൽ ഈ സാഹചര്യത്തിൽ അത് അസംസ്കൃത വസ്തുക്കളിൽ ഉണ്ടായിരുന്നതുപോലെ ഓരോ ചെലവിനും സംഭാവന നൽകാം ചിലപ്പോൾ വൈദ്യുതി കുറവായിരിക്കും ഈ സാഹചര്യത്തിൽ അത് വൈദ്യുതോർജ്ജത്തിന്റെ മെഗാ മെഗാഹെർട്സ് സംഭാവനയായിരിക്കും ചിലപ്പോൾ വിൽപ്പനയുടെ രൂപയിലോ വിപണിയുടെ വലിപ്പത്തിലോ മൊത്തത്തിലുള്ള വിൽപ്പന സാധ്യതകൾ പരിമിതമായിരിക്കും പിന്നെ എങ്ങനെ തീരുമാനം എടുക്കും പിന്നെ പി വി അനുപാതം അനുസരിച്ചായിരിക്കും തീരുമാനം കാരണം പിവി അനുപാതം വിറ്റുവരവ് കൊണ്ട് ഹരിച്ചുള്ള സംഭാവനയാണ് ചിലപ്പോൾ യൂണിറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വിപണി സാധ്യത പരിമിതമാകും തുടർന്ന് ഓരോ യൂണിറ്റിനും ലഭിക്കുന്ന സംഭാവനയെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനം എടുക്കുന്നത് അതിനാൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഘടകങ്ങൾ വളരെ പ്രധാനമാണ് സാധാരണയായി ഒരു ഘടകം മാത്രമേ കുറവുള്ളൂ അതിനെ ഒരു പ്രധാന ഘടകം എന്ന് വിളിക്കുന്നു ചിലപ്പോൾ അതിനെ പരിമിതപ്പെടുത്തുന്ന ഘടകം അല്ലെങ്കിൽ പ്രധാന ബഡ്ജറ്റ് ഘടകം എന്ന് വിളിക്കുന്നു അതിനാൽ ഒരു പ്രത്യേക പ്രധാന ഘടകം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രധാന ഘടകം അടിസ്ഥാനമാക്കിയാണ് തീരുമാനമെടുക്കുന്നത് ഇത് മനസ്സിൽ വയ്ക്കുക ഇതോടെ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം